ക്ലൌഡ് കമ്പ്യൂട്ടിംഗ് നിന്ന് തുടങ്ങാം അടിസ്ഥാന ആമുഖത്തെ കുറിച്ച് നമുക്ക് തുടങ്ങാം എന്നിട്ട് ഇന്നത്തെയോ അല്ലെങ്കിൽ വരുന്ന പ്രഭാഷണങ്ങളിലൂടെയോ കുറച്ചുകൂടി വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം ഹൈ ലെവൽ ആർക്കിടെക്ചറൽ ചട്ടക്കൂട് ഉണ്ട് അപ്പോൾ ഏറ്റവും മുകളിലുള്ള ബിസിനസ് ലക്ഷ്യത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രാഥമികമായി നമ്മൾ നോക്കുന്നത് ചില TCO അതായത് ഓർഗനൈസേഷൻറെ ചെയ്യേണ്ടത് ആവശ്യമാണ് ഇപ്പോൾ നിങ്ങൾ ഒന്നോ രണ്ടോ പ്രഭാഷണങ്ങൾ പുറകിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ എവിടെ നിന്നാണു ക്ലൌഡ് കമ്പ്യൂട്ടിംഗിൻറെ വിപണികളിൽ അയാളുടെ ബിസിനസ് ലക്ഷ്യം നിർവചിക്കാൻ അനുവദിക്കുന്നത് അവസാനമായി ഈ മെഷേർഡ് സംവിധാനങ്ങളിൽ ഉണ്ട് ഈ തരത്തിലുള്ള കാര്യങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള സേവന മാതൃകകളിൽ പ്രകടമായിരിക്കും ഉദാഹരണത്തിന് ഇൻഫ്രാസ്ട്രക്ചറൽ എന്തിനൊക്കെ ആയിരിക്കണം അടിസ്ഥാനമായ പരിഗണനകൾ നൽകേണ്ടത് എന്ന് മനസ്സിലാക്കണം ഇനി ക്ലൌഡ് കമ്പ്യൂട്ടിംഗ് ആർക്കിടെക്ചറിൻറെ വസ്തുക്കളുടെ സാങ്കേതിക സവിശേഷതകൾ പിന്നെ ഉള്ളത് ഡിപ്ലോയ്മെൻറ് ഓപ്പറേഷൻ ആർക്കിടെക്ചർ ഇനി ഈ സാധാരണ XaaS കാര്യത്തിലേക്ക് നോക്കാം ഏറ്റവും താഴെയുള്ളത് ഇൻഫ്രാസ്ട്രക്ച്ചർ ആയാലും ഈ തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് ഇനി നമുക്ക് ഉപയോക്താവിൻറെ കാഴ്ചപ്പാടിൽ നിന്നും ദാതാവിൻറെ കാഴ്ചപ്പാടിൽ നിന്നും നോക്കാം IaaSന് ഇത് ഒരു IT ഓപ്പറേഷൻ കുറിച്ച് വ്യത്യസ്ത കാഴ്ചപ്പാട് ആയിരിക്കും ഉണ്ടായിരിക്കുക ഇതിനെ നമുക്ക് രണ്ട് പ്രശസ്തമായ ക്ലൌഡ് DVയും മറ്റു തരത്തിലുള്ള സംഭരണങ്ങളും ഉണ്ടാവും ഇതിനിടയിലാണു പ്ലാറ്റ്ഫോമിനെ ചെയ്യുന്നത് മുൻപത്തെ സ്ലൈഡിൽ ഉപയോഗിക്കുന്നത് അശുർ മുതലായവ എനിക്ക് വ്യവസ്ഥ ചെയ്യാം പിന്നെ ഇതിലേക്ക് നോക്കേണ്ട കടമ ഉപയോക്താവ് അല്ലെങ്കിൽ ഉപഭോക്താവിൻറെതാണ് ഇപ്പോൾ എനിക്ക് സോഫ്റ്റ്വെയർ ആണ് നമ്മൾ ഈ പ്രത്യേക സാഹചര്യത്തിനു വേണ്ടി ചെയ്യുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും നമ്മൾ ധാരാളം സ്വഭാവങ്ങളെ കുറിച്ചും പ്രശ്നങ്ങളെ കുറിച്ചും സംസാരിച്ചു ഒന്ന് ഇലാസ്തികതയാണ് നമുക്കറിയാം ക്ളൌഡിൻറെ ഉള്ള ഒരു പ്രത്യേക റാക്ക് ഉണ്ട് തുടക്കത്തിൽ എനിക്ക് 24 സെർവറുകൾ മാറ്റാം എനിക്കിപ്പോൾ കൂടുതൽ വിഭവങ്ങൾ ഉണ്ട് അതേസമയം വലിയ സാഹചര്യങ്ങളിൽ സ്കെയിൽ ഔട്ട് വിലകുറഞ്ഞതാണ് അതിനാൽ എനിക്ക് ഒരു വലിയ തോതിലുള്ള സാഹചര്യം ഉള്ളപ്പോൾ ആ രീതിയിൽ വികസിക്കുന്നത് വളരെ ചെലവേറിയതായിരിക്കും അതിനാൽ അത്തരം സാഹചര്യങ്ങളിൽ സാമ്പത്തിക കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ചെലവ് കണക്കിലെടുത്ത് വികസിക്കുക മാത്രമല്ല അതിന്റെ പരിപാലനം പരാജയത്തിന്റെ നിരക്ക് ഒരൊറ്റ സിസ്റ്റത്തെപ്പോലെ ആണോ എന്ന് പരിഗണിക്കുന്നത് നമ്മുടെ ആവശ്യകതയെ അടിസ്ഥാനമാക്കിയാണ് ഇപ്പോൾ വീണ്ടും നമ്മുടെ സേവന മോഡലിലേക്ക് നോക്കാം അതിനാൽ പരിചിതമല്ലാത്തവരോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ പരിചിതമല്ലാത്തവരോ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു പരിശോധന നടത്താം എന്നിരുന്നാലും ഇത് ഇൻഫ്രാസ്ട്രക്ചർ സത്തയാണ് XaaS അതിനാൽ ഒരു സേവനമെന്ന നിലയിൽ എന്തും ഡാറ്റ മറ്റൊരു ജനപ്രിയ സേവനമാണ് മറ്റ് തരത്തിലുള്ള സേവനങ്ങൾ നമുക്ക് നേടാനാകും അതിനാൽ ഈ ജനപ്രിയ XaaS ഉദാഹരണങ്ങളിൽ ചിലത് ഒരു സേവനമെന്ന നിലയിൽ ഇൻഫ്രാസ്ട്രക്ചർ മാത്രമായിരിക്കണം എന്നില്ല അതിനാൽ എനിക്ക് വ്യത്യസ്ത പ്രോസസ്സുകൾ ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ കാര്യം മനസ്സിലാക്കാൻ എന്നെ അനുവദിക്കുന്ന വ്യത്യസ്ത പ്രോസസ്സുകളോ ഉണ്ടാവും അതിനാൽ അത് പ്രത്യേക കാര്യങ്ങൾ പിന്തുടരും ഇപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഒരു സേവനത്തിൻറെ കൂടെ ബിസിനസ് ഭാഷ ഒരു പ്രധാന വശമാണ് അതിനാൽ RAW ഇൻഫ്രാസ്ട്രക്ച്ചർ പ്രക്രിയയാണ് ഇതിലേക്ക് വീണ്ടും അൽപം നോക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ ജനപ്രിയ IaaS PaaS മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ എന്നിവയാണ് അതിനാൽ ഏറ്റവും പ്രചാരമുള്ള ഈ മൂന്ന് ഉദാഹരണങ്ങൾ കൂടാതെ നമുക്ക് മറ്റ് നിരവധി ബിസിനസ്സ് പ്രോസസ്സുകൾ ഞാൻ ആഗ്രഹിക്കുന്നു

സോഫ്റ്റ്വെയറിൽ അതിനാൽ എനിക്ക് ഒരു സേവനമെന്ന നിലയിൽ എന്തും നേടാനാകും മാത്രമല്ല ഇവ ലോകമെമ്പാടും ഉപയോഗിക്കുന്ന ചില കാര്യങ്ങളാണ് അതിനാൽ ദിവസാവസാനം CSPയോ ക്ലൌഡ് ദാതാവോ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് അന്തിമ ഉപയോക്തൃ സംതൃപ്തി ചില നൂതന സേവനങ്ങൾ എന്നിവയ്ക്കായി എന്താണ് തിരയുന്നത് അതിന് വിപണി സ്ഥാനം നിലനിർത്താൻ കഴിയും ഇൻഫ്രാസ്ട്രക്ചർ ആവശ്യകതയ്ക്കൊപ്പം സ്വയം ക്രമീകരിക്കാൻ കഴിയും ഇത് വീണ്ടും നോക്കിയാൽ അടിസ്ഥാന നിർവചനത്തിലേക്ക് മടങ്ങിവന്ന് കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിലൊന്ന് വിശാലമായ നെറ്റ്വർക്ക് ആക്സസ് എന്നിവയാണ് അതിനാൽ ഇതു നാലും ഈ XaaS തരത്തിലുള്ള സേവനങ്ങൾ തിരിച്ചറിയുന്നതിൽ അനുഭവപ്പെടുന്നു അതിനാൽ സേവന ദാതാവിന്റെ നാല് സാധാരണ ആവശ്യങ്ങളും XaaS നിറവേറ്റുന്നു ഇപ്പോൾ നമ്മുടെ TCPIP അല്ലെങ്കിൽ OSI മോഡലുകൾ ആണ് അതിനാൽ ഈ മൂന്ന് സ്റ്റഫുകളും സ്വഭാവം

അതിലുപരിയായി തിരിച്ചറിയേണ്ടത് വിർച്വലൈസേഷന്റെ ഞാൻ എന്തിനെയാണോ പ്രവർത്തിക്കേണ്ടത് അത് അതിനുമുകളിലായി പ്രത്യേക OS വയ്ക്കേണ്ടതുണ്ട് അതിനാൽ ഈ മിഡിൽവെയറിന് ഉണ്ട് അതിനാൽ ഈ IaaS നെ സാധ്യമാക്കുന്ന വ്യത്യസ്ത ഘടകങ്ങളാണിവ എല്ലാ ഘടകങ്ങളും തുല്യപ്രാധാന്യമുള്ളവയല്ല എല്ലാത്തരം XaaS തരത്തിലുള്ള കാര്യങ്ങൾക്കും തുല്യപ്രാധാന്യമുള്ളതായിരിക്കില്ല പക്ഷേ അവ സാക്ഷാത്കരിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു അതിനാൽ പ്രാരംഭ പ്രഭാഷണങ്ങളിൽ ഇതിനകം തന്നെ വിതരണ സംവിധാനങ്ങളും മറ്റ് കാര്യങ്ങളും നിലവിലുണ്ടെന്ന് സൂചിപ്പിച്ചിരിക്കണം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നു അതിനാൽ ഇത് കൂടുതൽ മാർക്കറ്റ് ഉണ്ട് അതിനാൽ ഇത് ലെഗസി വലുപ്പം മുതലായവ നിർമ്മിച്ചിരിക്കുന്നത് അന്തിമ ഉപയോക്താവിന് പ്രവർത്തിക്കാൻ ചില സമർപ്പിത ആപ്ലിക്കേഷനുണ്ട് ഉണ്ട് പക്ഷേ അവ വളരെ ശക്തമായി ബന്ധപ്പെട്ടിട്ടില്ല അതിനാൽ തുടർന്നുള്ള ചില പ്രഭാഷണങ്ങളിൽ കാണാൻ കഴിയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വിഭവങ്ങൾ നന്നായി വിനിയോഗിക്കാനോ നിക്ഷേപ അവകാശത്തിൽ നിന്ന് മികച്ച വരുമാനം നേടാനോ അനുവദിച്ചേക്കാം അല്ലെങ്കിൽ ഒരേ തരത്തിലുള്ള കാര്യങ്ങൾക്ക് വ്യത്യസ്ത തരം സേവനങ്ങൾ നൽകുക അല്ലെങ്കിൽ ഒരു പൊതുവായ വിഭവം അടിസ്ഥാനമാക്കിയുള്ള ഒരു തരത്തിലുള്ള സേവനം നൽകുക ചില കേസുകളിൽ നിരവധി ഓർഗനൈസേഷനുകൾക്ക് പ്രവർത്തിപ്പിക്കാൻ ഗവേഷകരെ അനുവദിക്കുന്നതിനായി അവയെ ഒന്നിച്ചുചേർക്കാൻ കഴിയും അതിനാൽ അവരുടെ വിഭവങ്ങൾ മികച്ച രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നതിനുള്ള ഒരു മാർഗമാണിത് അതിനാൽ ക്ലാസിക്കൽ മോഡൽ പ്ലസ് IaaS PaaS അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള XaaS തരത്തിലുള്ള സേവനങ്ങൾ പകരം നമ്മുടെ ക്ലാസിക്കൽ ഒരു പ്രത്യേക ഭാഗമാണ് അതിനാൽ ക്ലൌഡ് കംപ്യൂട്ടിങ്നിൻറെ വ്യത്യസ്ത കാര്യങ്ങളും കാണാം ഇന്ന് ഈ പ്രഭാഷണം നമുക്ക് ഇവിടെ നിർത്താം നന്ദി